ട്രേഡ് മാർക്കുകൾ ഇന്ത്യയിൽ എന്ന വിഷയമാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ട്രേഡ് മാർക്കുകൾ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമോ നിയമമോ ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല പ്രമാണങ്ങളോ മാർക്കുകളോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ ക്രിമിനൽ ലോയുടെ ഭാഗമായി ഇന്ത്യൻ കോടതികൾ കൈകാര്യം ചെയ്യുമായിരുന്നു അനുവാദമില്ലാതെ ആരുടെയെങ്കിലും മാർക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമായാണ് കരുതിയിരുന്നത് അതുകൊണ്ടുതന്നെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നവർക്ക് തക്കശിക്ഷകളും ലഭിക്കുമായിരുന്നു ഇപ്പോൾ അത് അസാധുവാക്കിയിരിക്കുകയാണ് 1958 ൽ ട്രേഡ് മാർക്ക് ആക്ട് നിലവിൽ വന്നപ്പോൾ അതുവരെ ക്രിമിനൽ ലോ യുടെ ഭാഗമായി വന്നിരുന്ന മാർക്കുകളുടെ ദുരുപയോഗം അതിൽ നിന്നും മാറ്റി ട്രേഡ് മാർക്ക് ആക്ടിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ആദ്യമായി ഇന്ത്യയിൽ നിലവിൽ വന്നആക്ടാണ് 1958 ൽ നിലവിൽവന്ന ട്രേഡ് മാർക്ക് ആക്ട് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിനുള്ളിൽ നിയമങ്ങളെല്ലാം സംയോജിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആദ്യകാലഘട്ടങ്ങളിൽ ട്രേഡ് മാർക്ക് ആക്ട് 1940 നിലവിലുണ്ടായിരുന്നു അത് ബ്രിട്ടീഷ് ഭരണത്തിൻറെ കാലഘട്ടമായിരുന്നു ഇതുകൂടാതെ ഇന്ത്യൻ മെർക്കന്റൈസ് മാർക്ക് ആക്ടും ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വ്യാപാരം എന്നതിനെ മെർക്കന്റൈസ് എന്ന് പറയും എന്ന് ഈ നിയമവും 1889 ൽ ബ്രിട്ടനിൽ നിലവിൽവന്ന ബ്രിട്ടീഷ് ആക്ട് തന്നെയാണ് 1889 മുതൽ തന്നെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലും ഇതിൻറെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു 1958 ൽ ട്രേഡ് ആൻഡ് മെർക്കന്റൈസ് മാർക്ക്സ് ആക്ട് നിലവിൽ വന്നപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ മൂന്ന് ആക്ടുകളും മാറ്റിക്കളഞ്ഞു 1958 ൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആക്ട് പാസാക്കിയപ്പോൾ 1940 ലെ ആക്ടും 1889 ലെ ആക്ടും അതുവരെ നിലനിന്നിരുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ചില ഭാഗങ്ങളും മാറ്റിക്കളഞ്ഞു 1958 ലെ ആക്ട് നിലവിൽ വരുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളുടെ മാർക്ക് ഉപയോഗിക്കുന്നതിൽ നിന്നും തടയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1877 സ്പെസിഫിക് റിലീഫ് ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ എതിരാളിക്കെതിരെ സ്ഥിരമായ ഒരു നിരോധന ഉത്തരവ് സമ്പാദിക്കുന്നത് നിരോധന ഉത്തരവാണ് ഒരു ട്രേഡ് മാർക്ക് ഹോൾഡർക്ക് തൻറെ മാർക്ക് ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിക്കെതിരെ സമ്പാദിക്കാവുന്ന റിലീഫ് എന്ന് പറയുന്നത് ട്രേഡ് മാർക്കും ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ടിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളും ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിക്കെതിരെ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു നിരോധനാജ്ഞ സമ്പാദിക്കാവുന്നതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 ഉം ഇൻഫ്രിൻഞ്ജ്മെൻറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിലീഫ് ആക്ടും ആണ് കവർ ചെയ്യുന്നത് ഏകദേശം നാല് ദശാബ്ദകാലത്തോളം അതായത് 40 വർഷത്തോളം 1958 ആക്ട് നിലവിലുണ്ടായിരുന്നു ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ ഒരു അംഗരാജ്യം ആയതിനുശേഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രിപ്സ് കരാർ പ്രകാരമുള്ള നിയമാവലികളുമായി ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒത്തു പോകുന്നതിനായി 1995ൽ ഒരു പുതിയ നിയമ വ്യവസ്ഥ നിലവിൽ വരികയും 1958 ലെ ആക്ട് മാറ്റി പകരം 1999 ലെ ട്രേഡ്മാർക്ക് ആക്ട് പുതുക്കി സ്ഥാപിക്കുകയും ചെയ്തു ഒന്നു കൂടി നമുക്ക് ചുരുക്കി പറയാം നമുക്ക് 1940 ലെ ട്രേഡ് മാർക്ക് ആക്ട് ഉണ്ടായിരുന്നു അതിനുശേഷം രാജഗോപാൽ അയ്യങ്കാറുടെ നേതൃത്വത്തിലുള്ള അയ്യങ്കാർ കമ്മിറ്റി ട്രേഡ് മാർക്ക് എൻക്വയറി കമ്മിറ്റിയായി നിലവിൽ വന്നു ഈ കമ്മിറ്റിയുടെ ശുപാർശകളെ ഉൾക്കൊണ്ടുകൊണ്ട് 1958 ആക്ട് നിലവിൽവന്നു ഈ 1958 ആക്ട് ഏകദേശം 40 വർഷത്തോളം നിലനിന്നു അതിനുശേഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻറെ ട്രിപ്സ് കരാറുമായി ഒത്തുപോകുന്ന വിധത്തിലുള്ള 1991 ആക്ട് നിലവിൽ വന്നു അതുവരെ നിലനിന്നിരുന്ന നിയമാവലിയെ വിസ്തരിച്ചു പരിശോധിച്ചതിനു ശേഷവും നിലനിൽക്കുന്ന വ്യാപാര ശീലങ്ങളോട് ഒത്തുപോകുന്ന വിധത്തിലും 1958 ലെ ആക്ടിന് ശേഷം 40 വർഷത്തോളം കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കോടതി വിധികളുടെ വെളിച്ചത്തിലും ആണ് ഇപ്രകാരം ഒരു പുതിയ നിയമം നിലവിൽ വരുന്നത് 1958 ലെ ആക്ടിലില്ലാത്ത ചില പ്രധാന സവിശേഷതകൾ 1999 ലെ ആക്ടിൽ ഉണ്ട് അത് ട്രേഡ് മാർക്കിൻറെ വ്യാപ്തിയെയും നിർവചനത്തെയും കുറേക്കൂടെ വിശാലമാക്കി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കി ട്രേഡ് മാർക്കിൻറെ കാലാവധി 7 വർഷത്തിൽ നിന്നും പത്ത് വർഷം ആക്കി ഉയർത്തി ഇപ്പോൾ ട്രേഡ് മാർക്ക് 10 വർഷം കൂടുമ്പോൾ പുതുക്കിയാൽ മതി മുൻപ് ഏഴ് വർഷം കൂടുമ്പോൾ അത് പുതുക്കണമായിരുന്നു വളരെയധികം അറിയപ്പെടുന്ന ട്രേഡ് മാർക്കുകൾക്കും കളക്ടീവ് മാർക്കുകൾക്കും രജിസ്ട്രേഷൻ ആരംഭിച്ചു 1958ലെ ആക്ടിൽ ഇക്കാര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇക്കാര്യം കൂട്ടിച്ചേർത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രിപ്സ് കരാറിലെ നിയമങ്ങളുമായി ഒത്തു പോകുന്നതിനു വേണ്ടി മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പരാതിക്കാരന് താൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇൻഫ്രിൻഞ്ജ്മെൻറിനുള്ള പരാതി ഫയൽ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ നിയമത്തിന് മുൻപ് എവിടെയാണോ ഇൻഫ്രിൻഞ്ജ്മെൻറ് സംഭവിച്ചത് എവിടെയാണോ പരാതിക്കാരൻ തൻറെ കച്ചവട ഇടപാടുകൾ നടത്തിയത് അവിടെ മാത്രമേ പരാതി സമർപ്പിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇപ്പോൾ അത് മാറി എവിടെയാണോ താമസിക്കുന്നത് അവിടെ പരാതി ബോധിപ്പിക്കാവുന്ന അവസ്ഥ കൈവന്നു ഇനി 1999 ആക്ടിൻറെ അധികാരപരിധി എന്നത് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു പുതുക്കുന്നതിനുള്ള കാലപരിധി എന്ന് പറയുന്നത് റെജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ 10 വർഷത്തിലൊരിക്കൽ അത് പുതുക്കാവുന്നതാണ് കാലാകാലങ്ങളിൽ ട്രേഡ് മാർക്ക് പുതുക്കുകയും ഇൻഫ്രിൻഞ്ജ്മെൻറിന് എതിരെ സംരക്ഷണ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ഇടതടവില്ലാതെ സജീവമായി നിലനിർത്താൻ കഴിയും അപ്പോൾ ട്രേഡ് മാർക്ക് നൽകുന്ന അവകാശം എന്താണെന്നുവെച്ചാൽ രജിസ്റ്റർ ചെയ്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമാണ് ട്രേഡ് മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു പ്രത്യേക ഉൽപ്പന്നമായ ഷൂവിൻറെ വിൽപ്പനയ്ക്കായി അതിൻറെ ട്രേഡ് മാർക്കായി ഒരു പ്രത്യേക വാക്ക് അതായത് 'ട്രേഡ്' എന്ന വാക്ക് തന്നെ നിങ്ങൾ എടുക്കുന്നു വരികിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷൂ മാത്രമേ വിൽക്കാൻ സാധിക്കൂ അല്ലാതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ട്രേഡ് മാർക്കിൽ ഉൾപ്പെടുത്താത്ത പക്ഷം സ്റ്റേഷനറി വസ്തുക്കൾ വിൽക്കാൻ സാധിക്കുകയില്ല എന്താണ് ഒരു നല്ല ട്രേഡ് മാർക്ക് നല്ല ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് പറയാനും അക്ഷരങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമുള്ള ഒന്നാണ് ട്രേഡ് മാർക്ക് രൂപകല്പന ചെയ്യുന്നത് വ്യാപാരി ആണെങ്കിലും അതു പൊതുജനത്തിന് ഉപയോഗിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഉള്ളതാണ് ആ അർത്ഥത്തിൽ വായിക്കാനും പറയാനും എളുപ്പമുള്ള ഒന്നായിരിക്കണം ട്രേഡ് മാർക്ക് മാത്രമല്ല അത് ആകർഷകമായതായിരിക്കണം എളുപ്പത്തിൽ ഓർമിച്ചെടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കണം സാധാരണയായി ഡിക്ഷ്ണറിയിൽ ഉള്ള വാക്കുകൾ ട്രേഡ് മാർക്കായി അനുവദിക്കാറില്ല അതുകൊണ്ട് അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത് അതുമല്ലെങ്കിൽ ചിത്രങ്ങളും അക്ഷരങ്ങളും ചേർന്ന സംയുക്താക്ഷര മുദ്രകളോ ജാമിതീയ രൂപകല്പനകളോ ആകാം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളിലൊന്ന് പ്രശംസാജനകമായ വാക്കുകളോ വിവരണാത്മകമായ സംഗതികളോ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രശംസാജനകമായ വാക്കുകളോ വിവരണാത്മകമായ സംഗതികളോ ട്രേഡ് മാർക്കായി അനുവദിക്കാറില്ല ഭൂമിശാസ്ത്രപരമായ പേരുകൾ സാധാരണമായ സർനെയിമുകൾ ഏതെങ്കിലും ഒരു സമൂഹത്തിൻറെ പേര് അല്ലെങ്കിൽ വ്യക്തിയുടെ പേര് ഇവയെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് ഭൂമിശാസ്ത്രപരമായ പേരുകൾ ട്രേഡ് മാർക്കിൻറെ വിഷയം ആകാൻ പാടില്ല എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പന്നം ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് വരുന്നതാണെങ്കിൽ അതിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജി ഐ മാർക്കിൻറെ സംരക്ഷണം ലഭിക്കുന്നു ഇതേക്കുറിച്ച് വിശദമായി പിന്നീട് പഠിക്കുന്നതാണ് നിയമപ്രകാരം ഏതെങ്കിലും ഒരു സംഗതി ട്രേഡ് മാർക്കിൻറെ വിഷയം ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രേഡ്മാർക്ക് ആയി ഉപയോഗിക്കാൻ പാടില്ല മുൻപേ തന്നെ നിലനിൽക്കുന്നതോ അതിന് സമാനമായതോ ആയ അടയാളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അത് ആളുകളിൽ ആശയക്കുഴപ്പത്തിന് കാരണമാകും അതുമല്ലെങ്കിൽ ഇതു തന്നെയാണോ അത് എന്ന ചിന്തയിൽ ആളുകൾ തെറ്റായി നയിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് ഇൻഫ്രിൻ്ഞജിമെൻറിന് കാരണമാകാം രണ്ടാമത്തെ ഭാഗത്ത് ട്രേഡ് മാർക്ക് നിർവചിച്ചിട്ടുണ്ട് ട്രേഡ് മാർക്ക് ചിത്രങ്ങളാൽ അല്ലെങ്കിൽ ചിത്രം പോലെ പ്രതിനിധാനം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ചിത്രങ്ങളാൽ പ്രതിനിധാനം ചെയ്യുക എന്നത് ട്രേഡ് മാർക്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഉല്പന്നങ്ങളും സേവനങ്ങളും വേർതിരിക്കാൻ അവക്ക് സാധിക്കുകയും വേണം അതുകൊണ്ട് അവ പ്രതിനിധാനം ചെയ്യുന്നു അവ ഒരാളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മറ്റൊരാളുടെ ഉത്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു അവ ഒരുപക്ഷേ ഉൽപ്പന്നങ്ങളുടെ തന്നെ മാതൃകയാകാം ഈ മാതൃക അവയുടെ പാക്കേജിങ് കൂടി ഉൾപ്പെട്ടതാകാം അല്ലെങ്കിൽ കളറുകളുടെ ഒരു സംയുക്തം ആകാം ഇവയെല്ലാം ചേർത്ത് ഒരു പുതിയ നിർവചനം നൽകുകയാണ് ഒരു ട്രേഡ് മാർക്ക് എന്നത് ചിത്രങ്ങൾകൊണ്ട് സൂചിപ്പിക്കുന്നതോ ചിത്രങ്ങൾകൊണ്ട് പ്രതിനിധാനംചെയ്യുന്നതോ ആകാം അവയുടെ സവിശേഷ ദൌത്യം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വേർതിരിച്ചറിയുക എന്നതാണ് എന്താണോ ചിത്രങ്ങൾകൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണോ ഒരാളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മറ്റൊരാളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത് അതാണ് ട്രേഡ് മാർക്ക് കൊക്കകോളയുടെതു പോലെ ഏതെങ്കിലുമൊരു ഉൽപ്പന്നത്തിൻറെ മാതൃകയാകാം ഈ മാതൃകയിൽ ഇതിൻറെ പാക്കേജിങ് മെറ്റീരിയൽസും ഉൾപ്പെടാം ചില ഉൽപ്പന്നങ്ങൾക്ക് ചില പ്രത്യേകമായ പാക്കേജിങ് മെറ്റീരിയൽസ് ഉണ്ട് ഇതൊന്നുമല്ലെങ്കിൽ കളറുകളുടെ ഒരു കോമ്പിനേഷൻ ആകാം സംയുക്തം ഇനി നമ്മൾ ട്രേഡ് മാർക്കുകളുടെ വിവിധ തരങ്ങളെകുറിച്ചാണ് മനസ്സിലാക്കുന്നത് അതിലൊന്നാണ് വേർഡ് മാക്സ് വേർഡ് മാക്സ് മാർക്കുകൾ വാക്കുകൾ മാത്രം ഉപയോഗിക്കാനുള്ള അവകാശം ആണ് ഈ വാക്കുകൾ എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നു എങ്ങനെ എഴുതണം എന്ന് സംബന്ധിച്ച് വേർഡ് മാർക്കിൽ യാതൊരുവിധ അവകാശങ്ങളും അവകാശപ്പെടാനാവില്ല വേർഡ് മാർക്ക് എന്നുപറഞ്ഞാൽ അത് വാക്കുകൾ മാത്രമാണ് വാക്കുകളോ അക്ഷരങ്ങളോ നമ്പറുകളോ ഉപയോഗിക്കാനുള്ള അവകാശം ആണ് മറ്റൊന്നാണ് സർവീസ് മാർക്സ് സർവീസ് മാർക്സ് എന്നുപറഞ്ഞാൽ ശൈലികളോ സിംബലുകളോ ഡിസൈനുകളോ ഇവയുടെ ഏതിൻറെയെങ്കിലും ഒക്കെ കോമ്പിനേഷനോ ആകാം അതുപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ എന്നതിനേക്കാൾ സേവനങ്ങളുടെ ഉറവിടത്തെയാണ് വേർതിരിക്കുന്നത് അടുത്തത് ഗുഡ്സ് മാർക്സ് ഗുഡ്സ് മാർക്കുകൾ ഉൽപ്പന്നങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ സർവീസ് മാർക്കുകൾ സേവനങ്ങളുടെ ഉറവിടത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു മറ്റൊന്നാണു കളക്ടീവ് മാക്സ് കളക്ടീവ് മാർക്കുകൾ ഏതെങ്കിലുമൊരു അസോസിയേഷനിൽ ഉള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്നു വ്യാപാര സമൂഹങ്ങളോ സംഘടനകളോ അംഗങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്നതാണിത് ഇനിയും വേറൊരു തരം ട്രേഡ് മാർക്കാണ് സർട്ടിഫിക്കേഷൻ മാർക്ക് സർട്ടിഫിക്കേഷൻ മാർക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് മാർക്കിൻറെ ഉടമസ്ഥനാണ് ഉൽപ്പന്നത്തിൻറെയോ സേവനത്തിൻറെയോ ഉത്ഭവം ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃതവസ്തുക്കൾ അത് നിർമ്മിച്ച രീതി അതിൻറെ ഗുണം കൃത്യത തുടങ്ങിയവ സംബന്ധിച്ചാണ് സാക്ഷ്യപ്പെടുത്തൽ നടത്തുന്നത് ഉൽപ്പന്നത്തിൻറെയോ സേവനത്തിൻറെയോ ഗുണപരതയെക്കുറിച്ച് ചെയ്യുന്ന സാക്ഷ്യപ്പെടുത്തൽ ആണ് സർട്ടിഫിക്കേഷൻ മാർക്ക് പാരമ്പര്യ ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സാമ്പ്രദായികമല്ലാത്ത ചില ട്രേഡ് മാർക്കുകളും ഉണ്ട് കളർ ട്രേഡ് മാർക്കുകൾ ഇതിൽ കളറുകളുടെ ഒരു സംയുക്തമാണ് ഉപയോഗിക്കുന്നത് അത് പാരമ്പര്യമായിട്ടുള്ളതല്ല എന്ന് പറയുന്നതിന് കാരണം 1958 ലെ ആക്ടിൽ ഇതില്ലായിരുന്നു എന്നാൽ 1999 ലെ ആക്ട് പ്രകാരം കളറുകളുടെ സംയുക്തങ്ങൾ ട്രേഡ് മാർക്കിൻറെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് വരുന്നുണ്ട് കാഡ്ബറിയിൽ ഉപയോഗിക്കുന്ന പർപ്പിൾ കളർ ഇതിനൊരു ഉദാഹരണമാണ് 1999 ലെ ആക്ട് പ്രകാരം ഷേപ്പ് മാർക്കുകളും അനുവദിക്കുന്നുണ്ട് നമ്മൾ തൊട്ടുമുൻപ് സൂചിപ്പിച്ച കൊക്കോകോളയുടെ ബോട്ടിൽ ഷേപ്പ് ഷേപ്പ് മാർക്കിന് ഉദാഹരണമാണ് ആക്ടിൽ ഇല്ലാത്ത അത്ര സാധാരണമല്ലാത്ത വേറെ ചില മാർക്കുകളും ഉണ്ട് ഉദാഹരണത്തിന് സ്മെൽ മാർക്സും സൌണ്ട് മാർക്സും ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർക്ക് സൌണ്ട് മാർക്കുകൾ നിരോധിക്കുകയുണ്ടായി മറ്റൊരു കേസ് വേറെ ഒരു അധികാരപരിധിയിൽ സ്മെൽ മാർക്കുകൾ അനുവദിക്കുകയുണ്ടായിട്ടുണ്ട് മോൺ ഗ്രാസിൻറെ സുഖന്ധത്തോടു കൂടിയ ടെന്നീസ് ബോളുകളും റോസാപൂവിൻറെ സുഖന്ധത്തോടു കൂടിയ കാറുകളുടെ ടയറുകളും ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നിയമം പറയുന്നത് ഈ മാർക്കുകൾ ചിത്രങ്ങളാൽ പ്രതിനിധാനം ചെയ്യപ്പെടണമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത് അതാണ് ചിത്രങ്ങളാൽ പ്രതിനിധാനം ചെയ്യപ്പെടണമെങ്കിൽ അത് പേപ്പറിൽ വരയ്ക്കണം അങ്ങനെ മാത്രമേ നമുക്ക് ട്രേഡ് മാർക്കുകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ ഇക്കാരണങ്ങളാൽ ഇന്ത്യൻ നിയമപ്രകാരം സ്മെൽ മാർക്സും സൌണ്ട് മാർക്സും അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് സ്മെൽ മാർക്സും സൌണ്ട് മാർക്സും കൂടാതെ ടേസ്റ്റുകൾക്ക് അഥവാ രുചികൾക്ക് ട്രേഡ് മാർക്ക് നൽകാനുള്ള ഒരു പരിശ്രമവും നടന്നിട്ടുണ്ട് ഇക്കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ട്രേഡ് മാർക്കുകൾ ചിത്രങ്ങളാൽ വിരചിതം ആകണം അതുകൊണ്ട് സ്മെൽ സൌണ്ട് ടേസ്റ്റ് എന്നീ ട്രേഡ് മാർക്കുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇനിയും വ്യക്തത ആയിട്ടില്ല ആർക്കാണ് ഒരു ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാൻ സാധിക്കുക ട്രേഡ് മാർക്കിൻറെ ഉടമസ്ഥൻ ആയിരിക്കുന്ന ഏതൊരാൾക്കും അല്ലെങ്കിൽ ആ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ട്രേഡ് മാർക്കിന് അപേക്ഷിക്കാവുന്നതാണ് പാറ്റേൺസിനും ഡിസൈനും ട്രേഡ് മാർക്കിനും ഒരേ കൺട്രോളർ ആണ് ഇവക്കുള്ള അപേക്ഷ പൂരിപ്പിച്ച് തപാൽമാർഗം അയക്കുകയോ അല്ലെങ്കിൽ ഇ ഫയലിംഗ് നടത്തുകയോ ചെയ്യാം അപേക്ഷയിൽ ട്രേഡ് മാർക്കും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ട്രേഡ് മാർക്കിൻറെ ചിത്രവും ഉണ്ടായിരിക്കണം ഏതൊക്കെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആണ് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അവയും നിയമ കാര്യസ്ഥൻറെ പേരുവിവരങ്ങളും മുന്നേ തന്നെ നിലവിലുള്ള ഒരു മാർക്ക് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുഉള്ള കാലാവധിയും രേഖപ്പെടുത്തേണ്ടതാണ് ട്രേഡ് മാർക്കുകൾ അവ ഉപയോഗിക്കാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റാണ് നൽകുന്നത് ട്രേഡ് മാർക്ക് ഉടമസ്ഥത തെളിയിക്കാനുള്ള പ്രഥമമായ തെളിവാണ് അതായത് ഉടമസ്ഥതയ്ക്കുള്ള തെളിവാണ് ട്രേഡ് മാർക്കുകൾ ഒരു രജിസ്റ്റർ ചെയ്ത ഉടമസ്ഥന് മറ്റേതൊരു സ്വത്തും പോലെ ട്രേഡ് മാർക്ക് അസൈൻ ചെയ്തു കൊടുക്കാവുന്നതാണ് ഇത് എല്ലാ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികളുടേയും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സവിശേഷതയാണ് അതായത് എല്ലാ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികളും അസൈൻ ചെയ്യുകയോ ലൈസൻസ് ചെയ്യുകയോ ചെയ്യാം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടികൾ വേറൊരാൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും എന്നർത്ഥം ട്രേഡ് മാർക്കിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ജനസമ്മതിയെ കാലകാലത്തോളം നിലനിർത്തുവാൻ സാധിക്കും ഇതാണ് നമ്മൾ പറയുന്നത് അൺലിമിറ്റഡ് ലൈഫ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് അൺലിമിറ്റഡ് ലൈഫ് ഇൻൻറലെക്ച്വൽ പ്രോപ്പർട്ടി എന്നാൽ അത് പുതുക്കുന്ന പക്ഷം കാലാകാലത്തോളം നമുക്കതിനെ സജീവമായി നിലനിർത്താൻ സാധിക്കും എന്നർത്ഥം ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊക്കോകോള നൂറു വർഷത്തിലധികമായി നിലനിൽക്കുന്നു കാരണം അവർ കാലാകാലങ്ങളിൽ പുതുക്കി അതിനെ സജീവമായി നിലനിർത്തിപ്പോരുകയാണ്